സ്വാഗതം ഇപ്പോൾ വരെ ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്താണെന്നതിനെക്കുറിച്ചുള്ള ചില ലോജിസ്റ്റിക്സ് ഞങ്ങൾ കോഴ്സിൽ കണ്ടു സോഷ്യൽ മീഡിയ സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനാകുന്ന സ്വാധീനവും സംഖ്യകളും വഴികളും എന്താണ് ഈ സേവനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത് പോസിറ്റീവും നെഗറ്റീവുമായ ചില സംഭവങ്ങൾ നോക്കിയാണ് അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പങ്കുണ്ട് സ്ലൈഡ് സമയം 0042 ഇതാ ആദ്യത്തേത് ഞാൻ സ്ലൈഡിൽ ഇട്ടത് പോലെ അത് സംഭവിച്ചത് 2009 ലാണ് പ്രതിസന്ധി മാനേജ്മെൻറിനായി ട്വിറ്റർ പോലുള്ള ഒരു സോഷ്യൽ മീഡിയ സേവനം ഉപയോഗിക്കുന്നത് ഇതാദ്യമാണ് റംസ് പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റ് ഇതാ ഹഡ്സണിൽ ഒരു വിമാനം ഉണ്ട് ഞാൻ ആളുകളെ കയറ്റാൻ പോകുന്ന ഫെറിയിലാണ് ഭ്രാന്ത് അതുവരെ ട്വിറ്റർ അടിസ്ഥാനപരമായി സംഭാഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു അടിസ്ഥാനപരമായി ഞാൻ രാവിലെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ കാപ്പി കുടിക്കുന്നു ഞാൻ ഇവിടെ യാത്ര ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ 2009 ൽ ആദ്യമായി ജെ റംസ് ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്തു അവിടെ യുഎസ് എയർവേയ്സ് വിമാനം ഹഡ്സൺ നദിയിൽ ഇറങ്ങിയപ്പോൾ ഈ പോസ്റ്റ് പുറത്തുവന്നു ആദ്യ പ്രതികരണക്കാർ എത്തുന്നതിനു മുമ്പുതന്നെ അടിയന്തിരാവസ്ഥയിൽ സഹായിക്കാൻ വന്ന പൌരന്മാരുണ്ടായിരുന്നു ഇതു കഴിഞ്ഞ് ട്വിറ്ററും സോഷ്യൽ മീഡിയ സേവനങ്ങളും വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാൻ തുടങ്ങി ചില ഉദാഹരണങ്ങൾ സോഷ്യൽ മീഡിയ പോസിറ്റീവ് ആയ സംഭവങ്ങൾ നെഗറ്റീവ് റോളുകൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ ഇത് വളരെ അനുകൂലമായിരുന്നു കാരണം ഇത് പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആദ്യ പ്രതികരണക്കാരെ സഹായിക്കുന്നതിനും സഹായിച്ചു ഒരു ഉദാഹരണം ഇതാ ഇന്ത്യയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു റെയിൽവേ പോലീസ് ഓഫീസർക്കൊപ്പം ആരോ ഈ കുട്ടിയുടെ ചിത്രം പകർത്തി 20 മിനിറ്റിനുള്ളിൽ അവൾക്ക് അവളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ റെയിൽവേ മന്ത്രിയെ പരാമർശിച്ചു ടാഗ് ചെയ്യുകയും ചെയ്തു അതിനാൽ ഈ ട്വീറ്റ് വൈറലായി ഈ ചിത്രം വൈറലാവുകയും കുട്ടിക്ക് 20 മിനിറ്റിനുള്ളിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്തു ഈ ഉദാഹരണങ്ങളിൽ ചിലത് പ്രത്യേകിച്ച് കാണാതായ കുട്ടികളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി കാണാതായ കുട്ടികളെയും രക്ഷിതാക്കളെയും കണ്ടെത്താൻ സഹായിക്കുന്നതിനായി മാത്രം സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കാണാതായ കുട്ടിയെ കണ്ടെത്തുക എന്നതിന്റെ ഒരു ഉദാഹരണം ഇതാ കൂടാതെ കാണാതായ കുട്ടികളെ കണ്ടെത്താൻ ഈ സോഷ്യൽ മീഡിയ സേവനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ഈ വെബ്സൈറ്റ് ധാരാളം നുറുങ്ങുകൾ നൽകുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു കൌമാരക്കാരിയായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ മറ്റൊരു ഉദാഹരണം ഇതാ ഇതൊരു നെഗറ്റീവ് ഫലമാണ് അവിടെ പെൺകുട്ടി തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തു അവിടെ അവൾ ഭീഷണിപ്പെടുത്തുകയാണെന്നു പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സൈബർ ഭീഷണി കോഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും പക്ഷേ സൈബർ ഭീഷണി കാരണം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു പലപ്പോഴും അവർ സ്വന്തം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒരു സന്ദേശം നൽകുന്നു ഈ സാഹചര്യത്തിൽ സൈബർ ഭീഷണി നേരിടുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ദിവസാവസാനം അവൾ ജീവൻ എടുത്തു കൂടാതെ ലോകത്ത് സോഷ്യൽ മീഡിയ പ്രതിസന്ധികൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സംഭവം സൃഷ്ടിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഇതാദ്യമാണ് 2009 ഹഡ്സൺ നദിയിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത് ഉപയോഗിച്ചു അതേസമയം യുകെ കലാപത്തിന്റെ കാര്യത്തിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലും വന്ന വാർത്തകൾ കാര്യങ്ങൾ മോശമാക്കി ഈ തെരുവിലെ ഈ സൈറ്റിലേക്ക് കലാപത്തിന് പോകാം എന്ന് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ സന്ദേശങ്ങൾ അയച്ചു ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അവിടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളടക്കം മാത്രമല്ല ലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ തന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ഉദാഹരണത്തിൽ 'നേപ്പാൾ ഭൂകമ്പം സർക്കാർ സോഷ്യൽ മീഡിയയെ ബന്ധിപ്പിക്കാനും ആശ്വാസം നൽകാനും' സംസാരിക്കുന്ന വാർത്താ ലേഖനങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പൌരന്മാരുമായി ഇടപഴകുന്നതിന് സോഷ്യൽ മീഡിയയുടെ കൂടുതൽ ഉപയോഗമുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ ഒന്നര വർഷമായി ചെയ്തുവരുന്നു അവിടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ സർക്കാർ സ്വയം സംഘടിപ്പിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന രീതി വർദ്ധിപ്പിച്ചു പൌരന്മാർ മറ്റൊരു സംഭവം സോഷ്യൽ മീഡിയയുടെ പ്രഭാവത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംഭവിച്ച ഏറ്റവും അസാധാരണമായ സംഭവങ്ങളിലൊന്നായിരിക്കും ഈ സംഭവം ഈ കേസിൽ ഉപയോഗിച്ച പ്രധാന സോഷ്യൽ മീഡിയ ട്വിറ്ററായിരുന്നു അവിടെ അവർ ട്വിറ്റർ പൌരന്മാരെ ഒരു സ്ഥലത്തേക്ക് ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചു വിപ്ലവം സംഭവിച്ചത് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സേവനങ്ങളിലൂടെ വളരെ വൈറലായ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗം മൂലമാണ് ഈജിപ്ത് പോലുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതുപോലുള്ള സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ മാത്രമല്ല ചെയ്യുന്നത് സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ട് ഉദാഹരണത്തിന് ബോസ്റ്റൺ ബോംബിംഗിന്റെ കാര്യത്തിൽ സാൻഡി ഹുക്ക് കുട്ടികൾ വേണ്ടി ബോസ്റ്റൺ മാരത്തൺ ഓടിയ സ്ഫോടനത്തിൽ മരിച്ച 8 വയസുള്ള കുട്ടിയ്ക്ക് റെസ്റ്റ് ഇൻ പീസ് ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുത്ത ഒരു എട്ടു വയസുള്ള കുട്ടിയും ഉണ്ടായിരുന്നേയില്ല ഈ ബോസ്റ്റൺ മാരത്തണിൽ മറ്റൊരു ട്വീറ്റും ഉണ്ടായിരുന്നു അവർ ഈ ട്വീറ്റ് റീട്വീറ്റ് ചെയ്താൽ അവർ ബോസ്റ്റൺ മാരത്തണിന് 1 ഡോളർ നൽകും ഈ ട്വീറ്റ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് തവണ റീട്വീറ്റ് ചെയ്തു പക്ഷേ ബോസ്റ്റൺ മാരത്തണിലേക്ക് പണമൊന്നും കൈമാറിയിട്ടില്ല ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പഠിക്കുന്നത് ഈ കോഴ്സിലെ പ്രധാന ശ്രദ്ധയാണ് നമ്മൾ സൈബർ ഭീഷണിപ്പെടുത്തലിനെക്കുറിച്ച് സംസാരിച്ചു സൈബർ ഭീഷണിപ്പെടുത്തൽ കോഴ്സിൽ വീണ്ടും വരും ഈജിപ്ത് വിപ്ലവം പോലുള്ള സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിശകലനങ്ങൾ നടത്താനും നമ്മൾ പിന്നീട് നോക്കും ഇന്ത്യൻ സർക്കാർ എങ്ങനെയാണ് പൌരന്മാരുമായുള്ള ആശയവിനിമയത്തിനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഞാൻ പരാമർശിച്ചു കോഴ്സിലെ ഒരു പ്രത്യേക മൊഡ്യൂൾ പോലീസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ പൌരന്മാരുമായി ഇടപഴകുന്നതെന്ന് പഠിക്കും ഇവിടെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഇത് ഈ വ്യാജ ഉള്ളടക്കത്തെക്കുറിച്ചു മാത്രമല്ല സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പോസ്റ്റുചെയ്യുന്ന സൈബർ ഭീഷണി ചെയ്യുന്ന ഉള്ളടക്കത്തെക്കുറിച്ചു മാത്രമല്ല ഇതാ അസോസിയേറ്റഡ് പ്രസ്സ് ഇത് ഒരു പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ട് ആണ് സ്ഥിരീകരിച്ച അക്കൌണ്ട് എന്നാൽ അത് നിയമാനുസൃതമാണെന്നും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അർത്ഥമാക്കുന്നു നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം നൽകാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണെങ്കിലോ ട്വിറ്റർ അക്കൌണ്ട് പരിശോധിച്ചുറപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അസോസിയേറ്റഡ് പ്രസ് ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ബ്രേക്കിംഗ് വൈറ്റ് ഹൌസിൽ രണ്ട് സ്ഫോടനങ്ങൾ ബരാക് ഒബാമയ്ക്ക് പരിക്കേറ്റു ഈ നിർദ്ദിഷ്ട ട്വീറ്റിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ അക്കൌണ്ട് പരിശോധിച്ചുറപ്പിച്ചതാണ് അതിനാൽ ഇത് നിയമാനുസൃതമായ ഒരു പോസ്റ്റാണെന്ന് ആളുകൾ കരുതി പക്ഷേ നിർഭാഗ്യവശാൽ ഈ അക്കൌണ്ട് കുറച്ച് സമയത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു അപ്പോഴാണ് ഈ പോസ്റ്റ് ചെയ്തത് അതിനാൽ പോസ്റ്റുചെയ്ത ഉള്ളടക്കങ്ങൾ വിശ്വസനീയമല്ലെന്ന് മാത്രമല്ല വിട്ടുവീഴ്ച ചെയ്ത അക്കൌണ്ടുകൾ പോലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം അതിനാൽ ഈ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ ഞാൻ എണ്ണിപ്പറയുകയാണ് കൂടാതെ ഞാൻ വളരെ അടുത്തു പിന്തുടർന്ന മറ്റൊരു കേസ് ഇവിടെയുണ്ട് ഇത് 2015 നവംബർ ഡിസംബർ ചെന്നൈ വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ ചിത്രങ്ങളിലൊന്നിനെക്കുറിച്ച് തെരുവുകളിൽ ഒരു മുതലയെക്കുറിച്ച് ധാരാളം കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ തെരുവുകളിൽ മുതലയോ ചീങ്കണ്ണിയോ ഉണ്ടായിരുന്നില്ല അതിനാൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വഴിയാണിത് അമേരിക്കയിലെ സാൻഡി ചുഴലിക്കാറ്റിന്റെ സമയത്തു ഇത് പോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെന്നൈയിലെ മുതലയെപ്പോലെ അവിടെ വെള്ളത്തിൽ സ്രാവിന്റെ ചിത്രം ഉണ്ടായിരുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ടെക്സ്റ്റ് പ്രശ്നം മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വ്യാജ ചിത്രങ്ങൾ പോസ്റ്റുചെയ്യപ്പെടുന്ന ഇമേജ് പ്രശ്നവുമുണ്ട് അത് വൈറലായി മാറുകയും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏകദേശം ഒന്നോ രണ്ടോ വർഷം മുമ്പ് നടന്ന മറ്റൊരു പ്രശ്നം ഇതാ റോബിൻ വില്യംസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു വിടവാങ്ങൽ സന്ദേശം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യാജ വീഡിയോ ആയിരുന്നു അതിനാൽ വെള്ളപ്പൊക്കം റോബിൻ വില്യംസ് ബോസ്റ്റൺ മാരത്തൺ സ്ഫോടനം എന്നിവ പോലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിശ്വസനീയമല്ലാത്ത ഉള്ളടക്കം സൃഷ്ടിക്കാൻ ആളുകൾ ഈ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് നമ്മൾ വിശദമായി പഠിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത് ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് അതാണ് ഈ സ്ലൈഡിലെ മൂന്ന് ചിത്രങ്ങൾ ഇടതുവശത്ത് മക്ഡൊണാൾഡിൽ നിന്നുള്ള വിർജീനിയ ബീച്ചിലെ മക്ഡൊണാൾഡ്സ് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ട്വീറ്റ് യഥാർത്ഥത്തിൽ മക്ഡൊണാൾഡിന്റെ ചിത്രമാണ് പക്ഷേ അത് വിർജീനിയ ബീച്ചിൽ നിന്നല്ല എടുത്തത് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റെവിടെ നിന്നോ എടുത്തതാണ് നടുവിലുള്ള ചിത്രം ഞാൻ സംസാരിച്ച ചിത്രമാണ് സാൻഡി ചുഴലിക്കാറ്റിൽ വെള്ളത്തിൽ സ്രാവ് കാണപ്പെടുന്നു മുകളിൽ വലതു കൈയിലെ മൂന്നാമത്തെ ചിത്രം അവിടെ ചുഴലിക്കാറ്റ് നടക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് പറയാൻ ഉപയോഗിച്ച ഒരു സിനിമയിലെ ചിത്രമാണ് അതിനാൽ ഇതെല്ലാം വ്യാജ ചിത്രങ്ങളാണ് എന്നാൽ ചുഴലിക്കാറ്റ പോലുള്ള ഒരു സംഭവത്തിൽ അവയെല്ലാം വിശ്വസനീയമല്ലാത്ത ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ദുരുദ്ദേശ്യത്തോടെ ഉപയോഗിച്ചു ഇതു വരെ ക്ഷുദ്രകരമായ ഉള്ളടക്കം സർക്കാർ സ്ഥാപനങ്ങളുമായി ആളുകൾ എങ്ങനെ ബന്ധപ്പെടുന്നു രക്ഷിതാക്കളുമായി വീണ്ടും കണക്റ്റുചെയ്യാൻ ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം അതുപോലുള്ള കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഉദാഹരണം ഇതാ അതിൽ MI6 മിലിട്ടറി ഇന്റലിജൻസ് മേധാവിക്ക് ജോലി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ ചില ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു അത് പരസ്യമായി ചിത്രത്തിൽ MI6 ചീഫ് ആകാൻ പോകുന്ന ഈ വ്യക്തി പരസ്യമായി കാണിക്കാൻ പാടില്ലാത്ത ചില ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചു അതിനാൽ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രത്തോളം വെളിപ്പെടുന്നു എന്നത് ഒരു സ്വകാര്യതാ പ്രശ്നവുമുണ്ട് സ്വകാര്യതയെക്കുറിച്ചുള്ള ഈ ആശയം ഉണ്ട് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് പോലീസ് ഉപയോഗിക്കാനുള്ള ആശയം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ വിശ്വസനീയമായ വിവരങ്ങളും തെറ്റായ വിവരങ്ങളും ഉണ്ട് ഇവയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ കാരണം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് എനിക്ക് നിങ്ങൾ ആരാണെന്നും എവിടെനിന്നാണെന്നും ഈ വിവരങ്ങൾ ഉപയോഗിക്കാനും പ്രസക്തമായ വിവരങ്ങൾ നിങ്ങൾക്ക് അയയ്ക്കാനും കഴിയും അതുകൊണ്ടാണ് ഫേസ്ബുക്ക് മനസ്സിലാക്കുക ഫേസ്ബുക്ക് അക്കൌണ്ട് മനസിലാക്കുക ഫേസ്ബുക്ക് ഹാൻഡിൽ മനസ്സിലാക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് വ്യക്തിഗതമാക്കലും അത് ഉപയോക്തൃ പെരുമാറ്റവും ടാർഗെറ്റുചെയ്ത പരസ്യവും ചുറ്റുമുള്ള വിഷയങ്ങളും പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള കൂടുതൽ പ്രത്യാഘാതങ്ങൾ കാണുകയാണെങ്കിൽ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവ അമിതമായി ഉപയോഗിച്ചതിനാൽ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനാൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിങ്ങൾ പോസ്റ്റുചെയ്യുന്നതിനെക്കുറിച്ച് ഓർഗനൈസേഷനുകളുടെ ആകാംക്ഷ കമ്പനികളുടെ ജീവനക്കാർ അവർ പ്രവർത്തിക്കുന്ന പ്രോജക്റ്റുകളെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കരുത് ഈ ഉള്ളടക്കങ്ങൾ അവർ പാടില്ലാത്ത ആളുകളുടെ കൈകളിലേക്ക് പോകുമ്പോൾ ഈ വിവരങ്ങൾ കമ്പനിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയും കമ്പനി യഥാർത്ഥത്തിൽ ജീവനക്കാരനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നു ഇപ്പോൾ ആദ്യ ആഴ്ചയിലെ ഉള്ളടക്കം നോക്കുക ഞങ്ങൾ ചെയ്തതെല്ലാം ഞങ്ങൾ ചെയ്തത് ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ വളർച്ച അത് എത്ര വലുതാണ് അതെന്താണ് 60 സെക്കൻഡിൽ എത്രത്തോളം ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നു ഞങ്ങൾ വേഗത വോളിയം വൈവിധ്യം മൂല്യം സത്യസന്ധത എന്നിവയും പരിശോധിച്ചു ഞങ്ങൾ സംസാരിച്ച 5 വി കൾ ഫേസ്ബുക്ക് ട്വിറ്റർ ലിങ്ക്ഡ് ഗൂഗിൾ പ്ലസ് വിസ്പർ പെരിസ്കോപ്പ് ടിൻഡർ തുടങ്ങിയ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയെ പോസിറ്റീവ് നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇതാണ് ലിനക്സും പൈത്തണും ഉപയോഗിക്കാൻ നിങ്ങളുടെ മെഷീൻ സജ്ജീകരിക്കുന്നതിനുള്ള ഉള്ളടക്കവും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത രണ്ട് ട്യൂട്ടോറിയലുകളാണ് ഇവ കോഴ്സിന്റെ ആമുഖത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ചില ഹൃദ്യമായ ട്യൂട്ടോറിയലുകൾ ഉണ്ടാകും അതിനാൽ കോഴ്സിന്റെ തുടക്കത്തിൽ ഞങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങളിൽ പ്രത്യേകമായി മനസിലാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ഇത് സ്വയം മനസിലാക്കാനും കാര്യങ്ങൾ സ്വയം ചെയ്യാനും നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് നമ്മൾ കോഴ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ട്വിറ്ററിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഡാറ്റ ശേഖരിക്കാൻ നിങ്ങൾ പൈത്തൺ കോഡ് എഴുതേണ്ടതുണ്ട് നിങ്ങൾക്കത് സ്വയം പരിചയപ്പെടുത്തേണ്ടിവരും അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ലിനക്സിനും പൈത്തണിനും ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ ട്യൂട്ടോറിയലുകൾ ലിനക്സും പൈത്തണും എങ്ങനെ സജ്ജീകരിക്കാമെന്ന് നിങ്ങൾക്ക് അൽപ്പം മനസ്സിലാകുകയാണെങ്കിൽ മുഴുവൻ കോഴ്സിനും നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു മെഷീനിൽ കഴിയുന്നത്ര നേരത്തെ സജ്ജമാക്കുക എന്റെ പക്കലുള്ള അവസാനത്തെ രണ്ട് സ്ലൈഡുകൾ ഞങ്ങളുടെ പക്കലുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ആണ് പ്രീകോഗ് ഗ്രൂപ്പ് എന്ന ഈ പേജിൽ ഈ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നഗ്രൂപ്പാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നതോ പങ്കിടുന്നതോ ആയ പല കാര്യങ്ങളും ഈ കോഴ്സിൽ ഞാൻ സംസാരിച്ച വിഷയങ്ങളും വിദ്യാർത്ഥികൾ ചെയ്യുന്ന കാര്യങ്ങളും ആണ് തുടർന്ന് ഈ വിഷയത്തിൽ രസകരമായ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് ഇവിടെ പങ്കിടുന്നു അതിനാൽ ഫേസ്ബുക്കിലെ precog dot iiit d പ്രീകോഗ് ഡോട്ട് ഐഐഐടി ഡി പേജ് നോക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഇത് ഈ പേജിന് വളരെ സാമ്യമുള്ളതാണ് ഇത് ഞങ്ങൾ precog dot iiitd dot edu പരിപാലിക്കുന്ന വെബ്സൈറ്റാണ് ഇത് ഈ ഗ്രൂപ്പിലെ എല്ലാ വിവരങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും സമാഹരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അതിനാൽ ഈ ഫേസ്ബുക്ക് പേജും ഈ വെബ് പേജും നോക്കണമെന്ന് ഞാൻ അങ്ങേയറ്റം ശുപാർശ ചെയ്യുന്നു ഈ കോഴ്സിന് മാത്രമല്ല ഈ അപ്ഡേറ്റഡ് ഉള്ളടക്കം എപ്പോഴും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നതിനാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾക്കായി ഈ രണ്ട് വിഷയങ്ങളും നോക്കണം അതോടെ ഞാൻ ആഴ്ച ഒന്ന് പൂർത്തിയാക്കി അടുത്തയാഴ്ച ഞാൻ വളരെ ചുരുക്കമായി പ്രതിപാദിച്ച ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും കൂടാതെ അടുത്തയാഴ്ചയിൽ ചില സെഷൻ ട്യൂട്ടോറിയലുകളും അപ്ലോഡ് ചെയ്യും ആഴ്ച 1 ലേക്കുള്ള ഗൃഹപാഠ അപ്ലോഡും ഉണ്ടാകും ദയവായി അത് പരീക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് NPTEL ഓൺലൈൻ കോഴ്സ് വെബ്സൈറ്റിൽ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കേണ്ടതില്ല അവയിൽ ചിലതിന് ഉത്തരം നൽകുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ ഇവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയും അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങളെ കാണുകയും ചെയ്യും